നാം രണ്ട് സഹജമായ സോർട്ടിങ് അൽഗോരിതങ്ങൾ കണ്ടു സെലക്ഷൻ സോർട്ടും ഇൻസേർഷൻ സോർട്ടും എന്നാൽ നിർഭാഗ്യവശാൽ ഇവ രണ്ടും ഓർഡർ n2 ആണ് വലിയ അറേകൾ തരംതിരിക്കാൻ ഓർഡർ n2 യഥാർത്ഥത്തിൽ നല്ലതല്ലെന്ന് നമുക്കറിയാം അപ്പോൾ പകരം എന്തു ചെയ്യാൻ കഴിയും ഒരു അറേയെ കൂടുതൽ ഫലപ്രദമായി സോർട്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നാം രണ്ടു തുല്യ ഭാഗങ്ങളായി തന്നിരിക്കുന്ന അറേയെ വിഭജിക്കുന്നു അതിനു ശേഷം ഇടതും വലതും ഭാഗങ്ങളെ വെവ്വേറെ സ്വതന്ത്രമായി സോർട്ട് ചെയ്യുന്നു ഇപ്പോൾ നമുക്കുള്ളത് സോർട്ട് ചെയ്യപ്പെട്ട ഒരു ഇടത് പകുതിയും സോർട്ട് ചെയ്യപ്പെട്ട ഒരു വലത് പകുതിയുമാണ് ഈ രണ്ട് പകുതികൾ കാര്യക്ഷമമായി സംയോജിപ്പിച്ച് പൂർണ്ണമായി സോർട് ചെയ്ത ഒരു അറേ നേടാൻ ഒരു മാർഗം ഉണ്ടെങ്കിൽ ഒരു പ്രോബ്ലെത്തെ രണ്ട് ചെറിയ ഉപപ്രോബ്ലെങ്ങളായി വിഭജിച്ച് അവയുടെ റിസൾട്ടുകൾ സംയോജിപ്പിച്ച് ആദ്യത്തെ പ്രോബ്ലെത്തിനു സൊലൂഷൻ നേടി എന്നു പറയാം അതിനാൽ നമുക്ക് ആദ്യം ഈ യോജിപ്പിക്കുന്ന സ്റ്റെപ്പ് നോക്കാം നമുക്ക് രണ്ട് സോർട്ട് ചെയ്യപ്പെട്ട ലിസ്റ്റുകൾ A B അല്ലെങ്കിൽ രണ്ട് സോർട്ട് ചെയ്യപ്പെട്ട അറേകൾ A B ഉണ്ട് നമ്മൾ അവയെ സോർട്ട് ചെയ്ത ഒരൊറ്റ പട്ടികയിലേക്ക് സംയോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് നമ്മുടെ മുന്നിൽ രണ്ട് അടുക്ക് കാർഡുകൾ ഉണ്ടെന്ന് കരുതുക അവ ഓരോന്നും ആരോഹണ ക്രമത്തിൽ ഒരേ രീതിയിൽ അടുക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങൾ രണ്ടു സ്റ്റാക്കിൽ നിന്നും ഓരോന്നുവീതം കാർഡുകൾ എടുക്കുന്നു അവ താരതമ്യം ചെയ്ത് രണ്ടിൽ ചെറിയത് എടുക്കുന്നു അതിനെ പുതിയ സ്റ്റാക്കിലേക്ക് മാറ്റുന്നു ഈ പ്രക്രിയ തുടർന്നാൽ ഒടുവിൽ എല്ലാ കാർഡുകളും പുതിയ സോർട്ട് ചെയ്യപ്പെട്ട സ്റ്റാക്കിലേക്ക് മാറുന്നു അങ്ങനെ നമ്മൾ സോർട്ട് ചെയ്ത ലിസ്റ്റിന്റെ ഒരു പുതിയ സ്റ്റാക്ക് നിർമ്മിക്കുന്നു വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിൽ നമുക്ക് ഇതിനെ നോക്കാം രണ്ടു സോർട്ട് ചെയ്ത അറേകൾ യോജിപ്പിക്കണമെന്ന് നമ്മൾ വിചാരിച്ചു അതിനാൽ ഇത് ആരോഹണ ക്രമത്തിൽ സോർട്ട് ചെയ്തിരിക്കുന്നു ഇതും ആരോഹണ ക്രമത്തിൽ സോർട്ട് ചെയ്തിരിക്കുന്നു ആദ്യ പടി ഏറ്റവും മുകളിൽ നോക്കുക എന്നതാണ് ഏറ്റവും മുകളിലുള്ളവയുടെ അടിസ്ഥാനത്തിൽ ഇവ ഇങ്ങനെ എഴുതപ്പെട്ടതാണെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ ഈ സ്റ്റാക്ക്എന്റെ പക്കലുണ്ട് ഈ സ്റ്റാക്ക്എന്റെ പക്കലുണ്ട് ഇപ്പോൾ ഞാൻ ഈ സ്റ്റാക്കുകളിലെ ഏറ്റവും മുകളിലുള്ള ഓരോ എലെമെന്റുകൾ എടുക്കുന്നു തുടർന്ന് ഇവ രണ്ടിൽ ചെറിയ എലെമെന്റ് പുതിയ സ്റ്റാക്കിന്റെ ഏറ്റവും മുകളിൽ ആയി ക്രമീകരിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഞാൻ 21 പുറത്തെടുക്കുന്നു ഞാൻ അത് ഇവിടേക്ക് നീക്കുന്നു ഇപ്പോൾ എനിക്ക് താരതമ്യം ചെയ്യേണ്ടത് രണ്ട് സ്റ്റാക്കുകളിൽ ഏറ്റവും മുകളിലുള്ള 32 ഉം 55 ഉം തമ്മിലാണ് അതിനാൽ ഞാൻ ഈ രണ്ടു വാല്യൂകളിൽ ചെറിയതായ 32 നെ പുറത്തേക്ക് നീക്കുന്നു ഇപ്പോൾ ഞാൻ 55 ഉം 74 ഉം താരതമ്യം ചെയ്യുന്നു അതിനാൽ 55 പുറത്തേക്ക് നീങ്ങുന്നു ഇനി ഞാൻ 74 ഉം 64 ഉം താരതമ്യം ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ 64 പുറത്തേക്ക് പോകും ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റാക്കിലേക്ക് ഒന്നും അവശേഷിക്കുന്നില്ല ആദ്യത്തെ സ്റ്റാക്ക് ഓർഡറിൽ ആണ് അതിനാൽ ഞാൻ അത് ക്രമത്തിൽ പകർത്തുന്നു അതിനാൽ ആദ്യം ഞാൻ 74 നീക്കുന്നു തുടർന്ന് 89 നീക്കുന്നു ഇത് വളരെ സഹജമായ രീതിയിൽ വളരെ സ്വാഭാവികമായി ചെയ്യുന്നു നമ്മൾ രണ്ട് സോർട്ട് ചെയ്ത ലിസ്റ്റ് ഉപയോഗിച്ച് ചെയ്ത ഈ കാര്യം ഒരു സാധാരണ അറേ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും അതിനാൽ ഇപ്പോൾ ഇത് എങ്ങനെ സോർട്ട് ചെയ്യാൻ ഉപയോഗിക്കും നമ്മൾ പറഞ്ഞതുപോലെ പ്രോബ്ലം രണ്ട് തുല്യ സബ് പ്രോബ്ലെങ്ങളായി വിഭജിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം സബ് പ്രോബ്ലെങ്ങൾ പരിഹരിക്കുക അതിനുശേഷം രണ്ട് പരിഹാരങ്ങളും അന്തിമ പരിഹാരത്തിലേക്ക് യോജിപ്പിക്കുക A0 മുതൽ An2 1 വരെയും An2 മുതൽ An 1 വരെയും ഞങ്ങൾ സോർട്ട് ചെയ്യും 0 മുതൽ n 1 വരെ വലിപ്പമുള്ള A എന്ന അറേ നമുക്കുണ്ട് അതിനാൽ നമ്മൾ n2 1 n2 എന്നിവ മിഡ് പോയിന്റുകളായി എടുക്കുന്നു നമ്മളിത് വെവ്വേറെ സോർട്ട് ചെയ്യുന്നു എന്നിട്ട് നാം അവയെ സംയോജിപ്പിക്കും അവസാന ഘട്ടത്തിൽ രണ്ട് സൊലൂഷനുകൾ യോജിപ്പിക്കുന്നത് ഉൾപ്പെടുന്നു ഇത് തികച്ചും സ്വാഭാവികമായും മെർജ് സോർട്ട് എന്ന് വിളിക്കുന്നു ആദ്യ ഘട്ടത്തിൽ സൃഷ്ടിച്ച രണ്ടു സബ് അറേകളെ ഓരോന്നിനെയും ഇതേ രീതിയിൽ വീണ്ടും രണ്ടു വീതം സബ് അറേകളായി തിരിച്ച് സോർട്ട് ചെയ്ത വീണ്ടും കൂട്ടിയോജിപ്പിച്ച് ചെയ്യാനാവും ഇങ്ങനെ റെക്കേർസിവ് ആയി ഒരു എലമെന്റ് മാത്രമുള്ള അറേ ലഭിക്കുന്നതുവരെ പോകാവുന്നതാണ് അതിനാൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഉദാഹരണം നോക്കാം നമ്മൾ ഒരു അറേ സോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആദ്യ പടി രണ്ടു ഭാഗങ്ങളായി ഈ അറേയെ വിഘടിപ്പിക്കുകയാണ് ഇതൊരു മധ്യബിന്ദുവാണ് ആദ്യത്തെ നാല് എലെമെന്റ്സുള്ള ഇടത് ഭാഗം നമ്മൾ ആദ്യം എടുക്കുന്നു പിന്നീട് വലതു ഭാഗവും ഇനി ഈ ഭാഗങ്ങളെ പ്രത്യേകമായി സോർട്ട് ചെയ്യുന്നു അവസാനം ഉത്തരം ലയിപ്പിക്കും ഇടത് ഭാഗത്തേക്ക് മെർജ് സോർട്ട് ബാധകമാക്കുന്നതിനാൽ നമ്മൾ വീണ്ടും അത് രണ്ട് ഭാഗങ്ങളായി വിഭജിക്കണം രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്നതിൽ ഞാൻ ഈ പോയിന്റ് എടുക്കും അതുപോലെ വലതുവശത്ത് ഞാൻ ഈ പോയിന്റ് എടുക്കുകയും രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുകയും ചെയ്യും ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ രണ്ട് സൈസുളള അറേ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നാൽ ബേസ് കേസ് എത്തുന്നതുവരെ ഇത് തുടരാം ഒരു എലമെന്റ് മാത്രമുള്ളപ്പോൾ സോർട്ടിങ് ആവശ്യമില്ല നാം വീണ്ടും ഇവ ഓരോ രണ്ടു ഭാഗങ്ങളായി വിഭജിക്കും സൌകര്യത്തിനായി ഞാൻ 2 കൊണ്ട് തുടർച്ചയായി വിഭജിക്കാൻ കഴിയുന്ന സൈസ് ആണ് എടുത്തിട്ടുള്ളതെന്ന് എന്നാൽ മെർജ് സോർട്ടിന് പരിമിതിയില്ല അത് ഏത് വലുപ്പത്തിനും പ്രവർത്തിക്കും നിങ്ങൾ ഒരു തുല്യതയില്ലാത്ത സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ രണ്ട് പകുതികളും ഒരേ വലുപ്പത്തിലായിരിക്കില്ല പക്ഷേ അത് ശരിക്കും പ്രധാനമാണ് ഇപ്പോൾ ഞങ്ങൾ അവസാന ഘട്ടം രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്നു അതിനാൽ 43 ഇപ്പോൾ അതിനാൽ ഇത് ഇപ്പോൾ ഒരൊറ്റ ഘടകമാണെന്നും അതിനാൽ സോർട്ട് ചെയ്തുവെന്നും സൂചിപ്പിക്കാൻ ഇത് പച്ചയിലാണ് ഇതും അങ്ങനെതന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ അവസാന ഘട്ടങ്ങൾ ഓരോന്നും എടുത്താൽ 8 സിംഗിൾ എലമെന്റുകൾ കിട്ടും അവ സോർട്ട് ചെയ്തിരിക്കുന്നു ഇനി നമ്മൾ മെർജ് ചെയ്യാൻ തുടങ്ങുന്നു അതിനാൽ നമ്മൾ ഈ രണ്ടും മെർജ് ചെയ്യുന്നു അതുപോലെ ഈ രണ്ടും മെർജ് ചെയ്യുന്നു നമ്മൾ ഈ രണ്ടും മെർജ് ചെയ്യുന്നു അവസാനം ഈ രണ്ടും മെർജ് ചെയ്യുന്നു അതായത് നമ്മൾ ആദ്യം രണ്ടെണ്ണം മെർജ് ചെയ്യും തുടർന്ന് ഇത് മെർജ് ചെയ്യും ചെറുതാണെങ്കിൽ ആദ്യം പോകുന്നു അതിനാൽ ഇത് ഇപ്പോൾ സോർട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ നമ്മൾ രണ്ടാമത്തെ ജോഡി മെർജ് ചെയ്യുന്നു അത് സോർട്ട് ചെയ്തതായി മാറുന്നു കാരണം 22 78 നേക്കാൾ ചെറുതാണ് ഞങ്ങൾ മൂന്നാമത്തെ ജോഡിയെ മെർജ് ചെയ്യുകയും അവ കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു തുടർന്ന് നാലാമത്തെ ജോഡിയെ വീണ്ടും ലയിപ്പിക്കും അവർ കൈമാറ്റം ചെയ്യുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം രണ്ടു സൈസുള്ള അറേയെ നേരിട്ട് എക്സ്ചേഞ്ച് ചെയ്തു സോർട്ട് ചെയ്യുകയല്ല മറിച്ച് രണ്ട് വാല്യൂകളും നോക്കി ആദ്യം ചെറിയ വാല്യൂ എടുത്തു അതിനു ശേഷം വലിയ വാല്യൂ ചേർത്തുവെച്ച് സോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഈ രണ്ട് അറേകൾ മെർജ് ചെയ്ത 4 എലമെന്റ് വലിപ്പമുള്ള ഒരു സോർട്ട് ചെയ്യപ്പെട്ട അറേ ആക്കും അതിനു ശേഷം ഈ രണ്ട് അറേകളും അടുത്തതായി 4 സൈസുള്ള ഈ രണ്ട് അറേകളും മെർജ് ചെയ്യണം 22 ആദ്യം വരും പിന്നെ 32 ഇവിടെ വരും പിന്നെ 43 ഇവിടെ വരും തുടർന്ന് 78 ഇവിടെ വരും അതായത് എനിക്ക് 22 32 43 ഉം 78 ഉം ലഭിക്കും ഇവിടെ ഇതേ രീതിയിൽ 30 ഇവിടെ വരണം തുടർന്ന് 57 തുടർന്ന് 63 തുടർന്ന് 91 അവസാനമായി എനിക്ക് ഇവ രണ്ടും മെർജ് ചെയ്യണം അതിനാൽ ഈ ചെറിയ 1 13 ഇവിടെ പോകും തുടർന്ന് ഞാൻ 22 എടുക്കും തുടർന്ന് ഞാൻ 32 എടുക്കും തുടർന്ന് എനിക്ക് 43 ലഭിക്കും തുടർന്ന് എനിക്ക് 57 ലഭിക്കും തുടർന്ന് എനിക്ക് 63 ലഭിക്കും എനിക്ക് 78 ലഭിക്കും തുടർന്ന് എനിക്ക് 91 ലഭിക്കും അതിനാൽ നാല് സൈസുള്ള ഈ രണ്ട് അറേകൾ ലയിപ്പിക്കുന്നത് എനിക്ക് അവസാനത്തെ വലിയ അറേ നൽകും അതായത് മെർജ് സോർട്ട് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ അറേ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുകയും ഒരേ രീതി ഉപയോഗിച്ച് രണ്ട് ഭാഗങ്ങളും റെക്കേർസിവ് ആയി പരിഹരിക്കുകയും മെർജ് ചെയ്യുകയും ചെയ്യുന്നു ഇത് പൊതുവെ നിങ്ങൾക്ക് ഒരു പ്രശ്നം എടുത്ത് ഒരു ഭാഗം മറ്റേ ഭാഗത്തിൽ നിന്ന് സ്വതന്ത്രമായി പരിഹരിക്കാൻ കഴിയുന്ന രണ്ടോ അതിലധികമോ ഭാഗങ്ങളായി ഒരു ഓവർലാപ്പുമില്ലാതെ വിഭജിക്കാൻ കഴിയുമെങ്കിൽ പല പ്രശ്നങ്ങൾക്കും ബാധകമാക്കാവുന്ന ഒരു തത്വമാണ് നിങ്ങൾ ഇത് പരിഹരിക്കുന്നു നിങ്ങൾ ഇതും പരിഹരിക്കുന്നു അതിനു ശേഷം ഇവ രണ്ടും സംയോജിപ്പിക്കുന്നു ഈ പ്രത്യേക അൽഗൊരിതത്തിൽ സംയോജനം എന്നാൽ മെർജ് ആണ് സംയോജനത്തിന് മറ്റൊരു തന്ത്രം ആവശ്യമാണോ എന്ന് നമ്മൾ പിന്നീട് മറ്റ് വിഭജനവും അൽഗോരിതങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ പറയും എന്നാൽ പ്രധാന ആശയം നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെറിയ പ്രോബ്ലെങ്ങളായി സ്പ്ലിറ്റ് ചെയ്യാനും പിന്നീട് അവയെ സംയോജിപ്പിക്കാനും കഴിയും എന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യക്ഷമതയുടെ കാര്യത്തിൽ ധാരാളം പ്രയോജനം ലഭിക്കും നിർണ്ണായകമായ കാര്യം ഒരു പ്രോബ്ലെത്തിനെ എങ്ങനെ പരസ്പരം ആശ്രയിക്കാത്ത സബ് പ്രോബ്ലെങ്ങളായി സ്പ്ലിറ്റ് ചെയ്ത് അവയ്ക്കോരോന്നിനും പരിഹാരങ്ങൾ കണ്ടെത്താമെന്നും പ്രധാന പ്രോബ്ലെത്തിന്റെ പരിഹാരത്തിനായി ഈ പരിഹാരങ്ങൾ എങ്ങനെ കാര്യക്ഷമമായി സംയോജിപ്പിക്കുകയും ചെയ്യാമെന്ന് തിരിച്ചറിയുക എന്നതാണ് അതിനാൽ നമുക്ക് നമ്മുടെ മെർജ് സോർട്ടിലേക്ക് തിരികെ വരാം യഥാർത്ഥ കോഡ് എഴുതാൻ ശ്രമിക്കാം രണ്ട് സോർട്ട് ചെയ്ത ലിസ്റ്റുകൾ അല്ലെങ്കിൽ അറേകൾ A B എന്നിവ എങ്ങനെ സംയോജിപ്പിച്ച് മൂന്നാമാതൊരു സോർട്ട് ചെയ്ത ലിസ്റ്റ് C യിലേക്ക് മാറ്റും രണ്ടിൽ ഒന്ന് ശൂന്യമാണെങ്കിൽ ശൂന്യമല്ലാത്തതിനെ C യിലേക്ക് പകർത്തിയാൽ മതി അതിനാൽ A യിൽ ഒന്നുമില്ലെങ്കിൽ അവശേഷിക്കുന്നില്ലെങ്കിൽ B യിൽ C യിലേക്ക് പകർത്താൻ കഴിയും B ശൂന്യമാണെങ്കിൽ എനിക്ക് A യിൽ നിന്ന് C യിലേക്ക് പകർത്താം അല്ലെങ്കിൽ നമ്മൾ A യിലെയും B യിലെയും ആദ്യ എലെമെന്റുകൾ താരതമ്യം ചെയ്ത് ചെറിയതിനെ C യിലേക്ക് പകർത്തും രണ്ടു ലിസ്റ്റിലെയും എല്ലാ എലെമെന്റുകളും പകർത്തി തീരും വരെ ഇത് ആവർത്തിക്കുന്നു ലളിതമായ ഇറ്ററേറ്റീവ് മെർജ് ഇങ്ങനെ എഴുതാം അതിന് രണ്ട് അറേകൾ ഇൻപുട്ടായി എടുക്കും m വലുപ്പമുള്ള ഒരു array A എടുക്കുക അതിന് 0 മുതൽ m 1 വരെ സ്ഥാനങ്ങളുണ്ട് n വലിപ്പമുള്ള മറ്റൊരു അറേ B യും എടുക്കാം ഇതിന് 0 മുതൽ n 1 സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് പുതിയ അറേ C യുടെ വലുപ്പം നമുക്ക് അറിയാം കാരണം അവിടെയുള്ളതെല്ലാം ഇവിടെ വരണം ഇത് 0 മുതൽ mn 1 വരെയായിരിക്കും ഈ അറേകളിലെ എലെമെന്റുകൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് അവയിലെ തത്സമയ സ്ഥാനങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ A യിലെ നിലവിലെ സ്ഥാനം i എന്നും B യിലെ നിലവിലെ സ്ഥാനം j എന്നും C യിലേത് k എന്നും എടുക്കാം അതിനാൽ നമ്മൾ ഒരു ലൂപ്പ് എടുക്കുന്നു ഇത് mn1 തവണ പ്രവർത്തിപ്പിക്കണമെന്ന് പറയുന്നു അതിനാൽ നമ്മൾ ഇതിനകം അവസാനം എത്തിയിട്ടുണ്ടെങ്കിൽ j ഇതിനകം അവസാനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ Ai Bj യേക്കാൾ ചെറുതാണെങ്കിൽ അതിനാൽ ഇതാണ് യഥാർത്ഥ മെർജ് സ്റ്റെപ്പ് A i ചെറുതോ Bjക്ക് തുല്യമോ ആണെങ്കിൽ നമ്മൾ അതിന്റെ മൂല്യം ഇവിടെ പകർത്തും അതിനാൽ Ck യിലേക്ക് മാറുക Ai ആയിരിക്കും തുടർന്ന് i യും k യും ഇൻക്രിമെന്റാക്കും എന്നാൽ j n ന് തുല്യമായ സാഹചര്യത്തിൽ ഇത് സംഭവിക്കുന്നു j എന്നതിന്റെ മൂല്യം n തുല്യമാണെങ്കിൽ ഈ പോയിന്റർ യഥാർത്ഥത്തിൽ അവിടെ എത്തി അതിനാൽ സ്കാൻ ചെയ്യാൻ ഒന്നും അവശേഷിക്കുന്നില്ല j n ന് തുല്യമാണെന്ന് പറഞ്ഞാൽ j വലത്തേ പരിധിക്ക് മുകളിലാണ് അതിനാൽ സ്കാൻ ചെയ്യാൻ ഒന്നുമില്ല അതായത് Ai Bj നേക്കാൾ ചെറുതാണെങ്കിൽ അല്ലെങ്കിൽ B യിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ A യിലെ നിലവിലെ എലമെന്റ് C യിലേക്ക് പകർത്തുന്നു മറിച്ച് Ai Bj യെക്കാൾ വലുതായിരിക്കുമ്പോൾ നമ്മൾ B യിലെ നിലവിലെ എലമെന്റ് C യിലേക്ക് പകർത്തുന്നു നമ്മൾ നേരത്തെ ചെയ്തതുപോലെ A ഇതിനകം തീർന്നിട്ടുണ്ടെങ്കിൽ B യിലുള്ളതെല്ലാം C യിലേക്ക് പകർത്തും ഈ ലൂപ്പ് രണ്ടു അറേകളിലെയും എലെമെന്റുകൾ അത്രയും മാറ്റാൻ ആവശ്യമായ സ്റ്റെപ്പുകൾ എടുക്കുന്നു ഓരോ സ്റെപ്പിലും ഒരു എലെമെന്റ് കൂടി C യിലേക്ക് നീക്കുന്നു നമ്മൾ നോക്കുന്ന നിലവിലെ ഘടകത്തിന്റെ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കി ഒന്നുകിൽ A യിൽനിന്ന് അല്ലെങ്കിൽ B യിൽനിന്ന് ഇപ്പോൾ നമുക്ക് മെർജ് സോർട് തന്നെ നോക്കാം ഒരു അറേ സോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പുതിയ അറേ സൃഷ്ടിക്കണം കാരണം ആദ്യത്തെ അറേയിലെ കാര്യങ്ങൾ ഒരു പുതിയ അറേയിലേക്ക് പകർത്തേണ്ടതുണ്ട് ഇവിടെ A എടുത്ത് അതേ വലുപ്പത്തിലുള്ള പുതിയ അറേ B യിലേക്ക് സോർട്ട് ചെയ്യാൻ പോകുന്നു അറേ സൈസ് 1 ആണെങ്കിൽ നമുക്ക് ബേസ് കേസ് ആണുള്ളത് ഇപ്പോൾ ഒന്നും ചെയ്യരുത് അല്ലെങ്കിൽ നമ്മൾ ഇടത് ഭാഗം ഒരു സബ് അറേ l ആയി സോർട്ട് ചെയ്യും വലത് പകുതി r ആയും തുടർന്ന് നമ്മൾ ഇപ്പോൾ ലഭിച്ച ഫംഗ്ഷൻ ഉപയോഗിച്ച് l നെയും r നെയും മെർജ് ചെയ്യും ഇത് വളരെ വ്യക്തമായ റികർസിവ് അൽഗോരിതം ആണ് നമുക്ക് A എന്ന അറേയെ ഇടത്തുനിന്ന് വലത്തേക്ക് മെർജ് സോർട്ട് ചെയ്യേണ്ടതുണ്ട് A യുടെ ഏറ്റവും ഇടത് അഥവാ ആദ്യത്തെ സ്ഥാനം left എന്ന് വിളിക്കപ്പെടുന്നു വലത്തേയറ്റത്തെ അഥവാ അവസാനത്തെ സ്ഥാനം right 1 ആണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ സോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭാഗത്തിന്റെ സൂചികകളാണ് അതായത് A left ൽ തുടങ്ങി A right 1 വരെ പോകുന്ന ഈ സെഗ്മെന്റ് സോർട്ട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ സെഗ്മെന്റിന്റെ ദൈർഘ്യം 1 ആണെങ്കിൽ നമ്മൾ അത് B യിലേക്ക് പകർത്തുന്നു അല്ലെങ്കിൽ നാം അറേയുടെ മിഡ് പോയിന്റ് കണ്ടെത്തി അറേയെ രണ്ടായി പകുക്കുന്നു ഈ രണ്ടു പകുതികളിൽ ആദ്യത്തേത് Aleft മുതൽ Amid 1 വരെയും രണ്ടാമത്തേത് Amid മുതൽ Aright 1 വരെയും ആയിരിക്കും ഈ രണ്ടു പകുതികളും ഓവർ ലാപ്പ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ് അതായത് അറേയുടെ മിഡ് വാല്യൂ ഒരു പകുതിയിൽ മാത്രമേ ഉൾപ്പെടാൻ പാടുള്ളൂ അതായത് വലതുവശത്ത് സമയം കാണുക 13 ഇത് ചെയ്തശേഷം mid left വലുപ്പമുള്ള l ഭാഗത്തെയും right mid വലുപ്പമുള്ള r ഭാഗത്തെയും B യിലേക്ക് മെർജ് ചെയ്യാൻ നമ്മൾ മുൻപ് പറഞ്ഞ മെർജ് ഫങ്ഷൻ ഉപയോഗിക്കും ഇത് നമുക്ക് ഇതിനകം ഉണ്ടായിരുന്ന ഫങ്ഷനാണ് ഇത് വളരെ ലളിതമായ റെക്കേർസിവ് ഫങ്ഷനാണ് mid point കണ്ടെത്തുക ഇടത് പകുതി സോർട്ട് ചെയ്യുക വലത് പകുതി സോർട്ട് ചെയ്യുക അവ മെർജ് ചെയ്യുക നമ്മൾ പറഞ്ഞതുപോലെ ഇടത് പകുതിയും വലത് പകുതിയും ഒരേ നീളമുള്ളതല്ലായിരിക്കും ഒരെണ്ണം നീളം കുറഞ്ഞതായിരിക്കും പക്ഷെ അത് പ്രശ്നമല്ല ഇത് എല്ലാ കേസുകളിലും പ്രവർത്തിക്കുന്നു ഇത് വിശകലനം ചെയ്യുന്നത് അത്ര ലളിതമായതല്ലാത്തതിനാൽ അത് അടുത്ത മോഡ്യൂളിലേക്ക് നീട്ടിവെക്കുകയാണ്